നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്പ്രോച്ചിന്റെ ഈ സെഷനിലേക്കു സ്വാഗതം ബിപ്ലബ് ദത്ത ഈ പാഠത്തിലേക്ക് തിരിഞ്ഞതിനു നന്ദി ഇവിടെ സേവന ഗ്യാരണ്ടി അതായത് നിരുപാധിക സേവന ഗ്യാരണ്ടി നല്കുന്നതിനെപ്പറ്റി നാം ചർച്ച ചെയ്യും ഉപാധികളില്ലാത്ത സേവന ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്നത് ഉപഭോക്താക്കൾക്ക് സേവനദാതാവിൽ നിന്ന് ലഭിക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു വ്യക്തമായും ഇത് മുമ്പ് സൂചിപ്പിച്ച എല്ലാ ഗുണനിലവാര വിടവുകളും പരിഹരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കമ്പനിയെ പ്രേരിപ്പിക്കുന്നു കാരണം അത് ഇല്ലാതെ ഉപഭോക്താവിന് പണം തിരികെ നൽകാൻ കമ്പനി ബാധ്യസ്ഥനാകും ബിഗ് ബസാർ പോലുള്ള റീട്ടെയിൽ ശൃംഖലകൾ ഉപഭോക്താവിന് അതേ ഉൽപ്പന്നം മറ്റെവിടെയെങ്കിലും വിലകുറഞ്ഞതായി കണ്ടാൽ അവർ ആ വ്യത്യാസം തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു കോഴ്സ് പൂർത്തിയാക്കി 90 ദിവസത്തിനുള്ളിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജോലി ഉറപ്പ് നൽകുന്നു മറ്റൊരു തരത്തിലുള്ള സേവന ഗ്യാരണ്ടിയുടെ ഒരു ഉദാഹരണം ഇതാ ഒരു ഉപഭോക്താവ് ഒരു കടയിൽ നിന്ന് ഒരു ടി ഷർട്ട് വാങ്ങി അത് അവന്റെ വസതിയിൽ കൊണ്ടുപോയി ടാഗ് നീക്കം ചെയ്ത് എല്ലാ ബില്ലുകളും സഹിതം നീക്കം ചെയ്തു പിറ്റേന്ന് മകന് ഷർട്ടിന്റെ വലിപ്പം കുറവായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി പക്ഷേ വാങ്ങിയതിന്റെ എല്ലാ തെളിവുകളും അദ്ദേഹം ഉപേക്ഷിച്ചതിനാൽ മടക്കം ആവശ്യപ്പെടാൻ അയാൾ മടിച്ചു എന്നിരുന്നാലും വലിയ വലുപ്പത്തിലുള്ള ഷർട്ട് തിരികെ നൽകാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചപ്പോൾ വാങ്ങിയ ടി ഷർട്ട് ഉടനടി കൌണ്ടറിൽ തിരികെ എടുക്കുകയും ഉപഭോക്താവിനോട് ശരിയായ വലുപ്പത്തിലുള്ള മറ്റൊരു ഷർട്ട് തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ സേവന ഇടപെടലിൽ ഉപഭോക്താവ് സന്തുഷ്ടനാവുകയും മറ്റ് പലരോടും കഥ വിവരിക്കുകയും ചെയ്തുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഉപഭോക്താക്കൾ ഓഫർ ദുരുപയോഗം ചെയ്യുകയും കമ്പനിയെ വഞ്ചിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നതിനാൽ പല കമ്പനികളും നിരുപാധികമായ സേവന ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുന്നത് ഭയക്കുന്നു കൂടാതെ സേവന ദാതാവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത നിരവധി ബാഹ്യ അവസ്ഥകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഡൊമിനോസ് 30 മിനിറ്റിനുള്ളിൽ പിസ്സകൾ വിതരണം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അല്ലാത്തപക്ഷം പിസ്സ സൌജന്യമാണ് എന്നിരുന്നാലും അവർ ഉപഭോക്തൃ ലൊക്കേഷൻ ട്രാഫിക് ഹോൾഡപ്പുകൾ ഡെലിവറിയെ ബാധിക്കാത്ത ഇടത്താണെന്നും അവരുടെ ഡെലിവറി വാഹനങ്ങൾ നല്ല നിലയിലാണെന്നും ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു നല്ല നിരുപാധിക സേവന ഗ്യാരണ്ടിയുടെ സവിശേഷതകൾ എന്തായിരിക്കണം ശരി ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും സ്പഷ്ടമായതുമായിരിക്കണം എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഉപഭോക്താക്കൾ മനസ്സിലാക്കണം ഗ്യാരണ്ടി ഉപയോഗിക്കുമ്പോൾ എന്താണ് നൽകേണ്ടതെന്ന് ജീവനക്കാർക്ക് ഉറപ്പുണ്ടായിരിക്കണം ഗ്യാരണ്ടി സേവന പരാജയം പൂർണ്ണമായും ഉൾക്കൊള്ളണം വിളിക്കാനും ശേഖരിക്കാനും എളുപ്പമായിരിക്കണം കൂടാതെ ഗ്യാരണ്ടിയുടെ ഫലത്തിൽ ഉപഭോക്താവിന് പൂർണ്ണമായി സംതൃപ്തിയുണ്ടാകണം മേൽപ്പറഞ്ഞ സവിശേഷതകൾ എങ്ങനെ ഉറപ്പാക്കാനാകും ഉപഭോക്താക്കൾ ഗ്യാരണ്ടി രൂപകൽപ്പന ചെയ്യുന്നതിൽ ഏർപ്പെടണമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ ശരിയാണ് സേവനത്തിന്റെ മറ്റ് സവിശേഷതകൾ പോലെ ഉപഭോക്താക്കൾ ജീവനക്കാർ മാനേജർമാർ ഉടമകൾ കമ്പനിയുടെ മറ്റ് പങ്കാളികൾ എന്നിവരിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഗ്യാരണ്ടിയും രൂപകൽപ്പന ചെയ്തിരിക്കണം നിരുപാധികമായ സേവന ഗ്യാരണ്ടി ഉപഭോക്താക്കളുടെ സേവനത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് പൂർണമായി ഉറപ്പുനൽകുകയും അതുവഴി അതിന്റെ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ഉറപ്പുള്ള സേവനത്തിന് അത്തരം ഒരു ഉറപ്പും ഇല്ലാത്തതിനേക്കാൾ ഉയർന്ന വില നൽകാൻ പോലും ഉപഭോക്താക്കൾ തയ്യാറാണ് ഒരു നല്ല നിരുപാധിക സേവന ഗ്യാരണ്ടിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഒരു നല്ല നിരുപാധിക സേവന ഗ്യാരണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും അവ്യക്തവുമാണ് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഉപഭോക്താവ് മനസ്സിലാക്കണം ഗ്യാരണ്ടി ഉപയോഗിക്കുമ്പോൾ എന്താണ് നൽകേണ്ടതെന്ന് ജീവനക്കാർക്ക് ഉറപ്പുണ്ടായിരിക്കണം ഗ്യാരണ്ടി സേവന പരാജയം പൂർണ്ണമായും ഉൾക്കൊള്ളണം വിളിക്കാനും ശേഖരിക്കാനും എളുപ്പമായിരിക്കും കൂടാതെ ഗ്യാരണ്ടിയുടെ ഫലത്തിൽ ഉപഭോക്താവിന് പൂർണ്ണമായി സംതൃപ്തിയുണ്ടാകും മേൽപ്പറഞ്ഞ സവിശേഷതകൾ എങ്ങനെ ഉറപ്പാക്കാനാകും ഗ്യാരണ്ടി രൂപകൽപ്പന ചെയ്യുന്നതിൽ ഉപഭോക്താക്കൾ ഏർപ്പെട്ടിരിക്കണം ഉപഭോക്താക്കൾ ജീവനക്കാർ മാനേജർമാർ ഉടമകൾ കമ്പനിയുടെ മറ്റ് പങ്കാളികൾ എന്നിവരിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഗ്യാരണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കണം ഒരു നിരുപാധിക സേവന ഗ്യാരണ്ടി ഉപഭോക്താക്കളുടെ സേവനത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് പൂർണ്ണമായി ഉറപ്പുനൽകുകയും അതുവഴി അതിന്റെ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ഉറപ്പുള്ള സേവനത്തിന് അത്തരം ഒരു ഉറപ്പും ഇല്ലാത്തതിനേക്കാൾ ഉയർന്ന വില നൽകാൻ പോലും ഉപഭോക്താക്കൾ തയ്യാറാണ് ഈ വീഡിയോ കണ്ടതിനു നന്ദി ഇത് സഹായകരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു